ഓക്സിലിയറി ഫീൽഡ് H ഇതുവരെ നൽകിയ അറിവുകൾ വച്ച് കാന്തിക വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ കാന്തികക്ഷേത്രം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കാൻ നമ്മൾ ഇപ്പോൾ തയ്യാറാണ് അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുസമയം ഇതുവരെ പഠിച്ചത് ആദ്യം വിശകലനം ചെയ്യാം ഒന്ന് കാന്തിക മണ്ഡലം വൈദ്യുത പ്രവാഹങ്ങളാൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു ബയോ സവാർട്ടും ആമ്പിയേഴ്സ് നിയമവുമാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ പഠിച്ച നിയമങ്ങൾ രണ്ടാമതായി B യുടെ കേൾ സ്വതന്ത്ര സ്ഥലത്ത് mu 0 j r ന് തുല്യമാണെന്നും ഏത് പോയിൻറ്ലും B യുടെ ഡൈവർജൻസ് എല്ലായ്പ്പോഴും പൂജ്യമാണെന്നും ഞങ്ങൾ പഠിച്ചു അതിനാൽ ഒരു സമാന്തരമെന്ന നിലയിൽ B യെ ഒരു വെക്റ്റർ പൊട്ടൻഷ്യലിൻറെ കേൾ ആയി പ്രകടിപ്പിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി മൂന്നാമതായി നമ്മൾ പഠിച്ചത് ഞാൻ ഒരു കാന്തിക ഡൈപോൾ അല്ലെങ്കിൽ കാന്തികവൽക്കരണo M ഉള്ള ഒരു കാന്തിക മാധ്യമം എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ ഉള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് M ഇത് ഒരു ബന്ധിത പ്രവാഹം j b അതായത് കേൾ M ന് തുല്യമാണ് ഒരു ഉപരിതല ബന്ധിത പ്രവാഹം K b അതായത് ഇത് മൈനസ് n ക്രോസ് M ന് തുല്യമാണ് ഇവ ഉപയോഗിച്ച് നമ്മൾ ചില ഉദാഹരണങ്ങളും പരിഹരിച്ചു കാന്തിക വസ്തുക്കളിൽ ഒരു ഫീൽഡ് പ്രയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് വികസിപ്പിക്കുന്ന സാഹചര്യങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഇത് ചെയ്യുന്നതിന് നമുക്ക് കേൾ B എന്നത് mu 0 j ആണെന്ന സമവാക്യം ഉപയോഗിക്കാം ഇപ്പോൾ വൈദ്യുതധാരകളുടെ സാന്നിധ്യത്തിൽ നിലവിലെ സാന്ദ്രത j r പ്രൈം ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചുവപ്പ് ഉപയോഗിച്ച് എഴുതട്ടെ ഈ കാന്തിക പദാർത്ഥങ്ങൾ ഇവിടെ ഓരോന്നായി കാന്തികമാക്കുന്നുവെന്ന് കരുതുക ഈ ഫീൽഡിൽ വെച്ചാൽ അത് ഒരു മാഗ്നറ്റിക് മൊമെന്റ് M വികസിപ്പിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ B ഉണ്ടാകാൻ സ്വതന്ത്ര വൈദ്യുതധാരകളും ബന്ധിതമായ വൈദ്യുതധാരകളും കാരണമാകും അതിനാൽ ഈ കാന്തികമണ്ഡലം കണക്കുകൂട്ടാനായി ഞാൻ എഴുതേണ്ടത് കേൾ B എന്നത് mu 0 j free പ്ലസ് mu 0 കേൾ M എന്നാണ് ഇവിടെ free എന്ന കറൻറ് പുറത്തു നിന്നുള്ളതാണ് M ന്റെ കേൾ എന്താണെന്ന് ഓർത്തു നോക്കൂ കേൾ M എന്നാൽ j ബന്ധിതമാണെന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു B0jfree0M അതിനാൽ എനിക്ക് ഈ സമവാക്യം B മൈനസ് mu 0 M എന്നതിന്റെ കേളിനെ mu 0 j ഫ്രീക്ക് തുല്യമായി എഴുതാം ധ്രുവീകരിക്കാവുന്ന മാധ്യമത്തിന്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ എഴുതിയ സമവാക്യത്തിന് ഇത് വളരെ സാമ്യമുള്ളതാണ് എന്നത് രസകരമാണ് നമ്മൾ എന്താണ് അവിടെ എഴുതിയതെന്ന് ഓർക്കുക നമ്മൾ എഴുതിയത് കേൾ ഓഫ് എപ്സിലോൺ 0 E പ്ലസ് P എന്നത് rho ഫ്രീ ക്ക് തുല്യമാണെന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ തിരിച്ചറിഞ്ഞതുപോലെ D എന്നത് വൈദ്യുത മണ്ഡലമല്ല മറിച്ച് ഒരു ഇന്ദ്ര സ്വതന്ത്ര ചാർജുമായി ബന്ധപ്പെട്ട ഓക്സിലിയറി വെക്റ്റർ പോലെ ഈ വെക്റ്റർ എപ്സിലോൺ 0 E പ്ലസ് P ഡിസ്പ്ലേ സ്മെൻറ് വെക്റ്ററും ഈ വെക്റ്റർ B മൈനസ് M ഒരു ഓക്സിലിയറി വെക്റ്ററും ആയിരിക്കും സ്വതന്ത്ര വൈദ്യുത സാന്ദ്രതയുമായി ബന്ധപ്പെട്ട ഒരു വെക്റ്റർ H നമ്മൾ എടുക്കുന്നു ഇവിടെ അത് കാന്തിക മണ്ഡലമല്ല ഈ മേഖലയിൽ ഒരു ചാർജ് നീങ്ങുകയാണെങ്കിൽ അതിന്മേലുള്ള ബലം നിർണ്ണയിക്കുന്നത് B ആയിരിക്കും സ്വതന്ത്ര വൈദ്യുതധാരയുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് പുറത്ത് നിന്ന് നിയന്ത്രിക്കാനാകുന്ന ഒരു അധിക വെക്റ്ററാണ് H B 0M0jfree HrB 0M അതിനാൽ നമ്മൾ കണ്ടുപിടിച്ച ഫീൽഡ് H എന്നാൽ mu 0 B മൈനസ് M ആണ് അതിൻറെ കേൾmu 0 j free ക്ക് തുല്യമാണ് മുഴുവനായി mu 0 കൊണ്ട് ഹരിച്ചാൽ അത് കൂടുതൽ നന്നായിരിക്കും അങ്ങനെ H എന്നാൽ B മൈനസ് M ഓവർ mu 0 ആകും അപ്പോൾ H ന്റെ കേൾ j free ക്ക് തുല്യമായിരിക്കും അതുപോലെ D യുടെ ഡൈവർജൻസ് rho free ക്ക് തുല്യമായിരുന്നത് ഓർക്കുക ഇത് അതിന് സമാനമാണ് അതുകൊണ്ടാണ് ഞാൻ mu 0 കൊണ്ട് ഹരിച്ചത് അങ്ങനെ ഒരു കാന്തികക്ഷേത്രം B യും ഒരു കാന്തികവൽക്കരണം M ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വെക്റ്റർ H ഉണ്ടെന്ന് കണ്ടു അത് B ഓവർ mu 0 മൈനസ് M ന് തുല്യമാണെന്നും അല്ലെങ്കിൽ B എന്നത് തുല്യമാണ് mu 0 തവണ H പ്ലസ് M ന് തുല്യമായിരിക്കും എന്നും നമ്മൾ കണ്ടെത്തി അതായത് H ന്റെ കേൾ j free ആണ് അതാണ് കേൾ സമവാക്യം HB0 M or B0HM Hjfree കാന്തിക മണ്ഡലത്തിൽ മറ്റെന്ത് സമവാക്യമാണുള്ളത് ഇത് B യുടെ ഡൈവർജൻസ് ആണ് അത് എല്ലായ്പ്പോഴും പൂജ്യമാണ് B0 അതിനാൽ എനിക്ക് ഈ രണ്ട് സമവാക്യങ്ങളും കാന്തിക വസ്തുക്കളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ്ൻറെയും സ്വതന്ത്ര പ്രവാഹത്തിൻറെയും സാന്നിധ്യത്തിലോ ലഭിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക് സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന സമവാക്യങ്ങളുമായി ഇവ വളരെ സാമ്യമുള്ളതാണ് അവിടെ എനിക്ക് കേൾ E എന്നത് പൂജ്യത്തിന് തുല്യവും D യുടെ ഡൈവർജൻസ് rho free ക്ക് തുല്യവും ആയിരുന്നു ഇത് വളരെ സമാനമാണ് ഇവിടെ കേൾ H എന്നത് j free ക്കും ഡൈവർജൻസ് B എന്നത് പൂജ്യത്തിനും തുല്യമാണ് കാന്തിക മണ്ഡലം നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതാണ് ചോദ്യം ഡൈവർജൻസ് H എന്നത് പൂജ്യമായിരുന്നുവെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളും ഒരുമിച്ച് എനിക്ക് സമവാക്യങ്ങൾ നൽകുമായിരുന്നതിനാൽ B ക്ക് ഉള്ളതുപോലെ അത് വളരെ എളുപ്പമായിരുന്നു B യുടെ കേൾ j ക്ക് തുല്യമാണ് B യുടെ ഡൈവർജൻസ് പൂജ്യത്തിന് തുല്യമാണ് പക്ഷേ ഞാൻ ഇവിടെ കാണിക്കുന്നതുപോലെ H ന്റെ ഡൈവർജൻസ് പൂജ്യമായിരിക്കണo എന്നില്ല ഡൈവർജൻസ് ഓഫ് H എന്നാൽ 1 ഓവർ mu 0 ഡൈവർജൻസ് ഓഫ് B മൈനസ് ഡൈവർജൻസ് ഓഫ് M ആയിരിക്കും എന്തുകൊണ്ട് എനിക്ക് M വ്യത്യാസപ്പെടുന്ന എന്തെങ്കിലും ഒരു ലളിതമായ വസ്തു ഉണ്ടെന്ന് കരുതുക ഉദാഹരണത്തിന് ഈ അമ്പടയാളത്തിന്റെ നീളം പിന്നെ നീളം കൂടിക്കൊണ്ട് ഇത് കാണിക്കാൻ കഴിയും അതിനാൽ ഞാൻ ഈ ദിശയിലേക്ക് നീങ്ങുമ്പോൾ M ന്റെ ഈ ഘടകം വർദ്ധിക്കുകയും ഡ്രൈവർജൻസ് M പൂജ്യം ആയിരിക്കുകയില്ല അതിനാൽ H ൻറെ ഡൈവർജൻസ് പൂജ്യം ആയിരിക്കണമെന്നില്ല ഇത് E യുടെ കേൾ പൂജ്യമായിരിക്കുന്നതിന് സമാനമാണ് എന്നാൽ D യുടെ കേൾപൂജ്യമായിരുന്നില്ലെന്ന് ഓർക്കുക അതിനാൽ കാന്തിക വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ കാന്തികക്ഷേത്രത്തിൻറെ സമവാക്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കുറച്ചധികം സാങ്കേതികതയോ വിവരങ്ങളോ ആവശ്യമാണ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിനുമുമ്പ് മാഗ്നറ്റിക് മൊമെന്റ്ൽ നിന്ന് ബന്ധിതമായ വൈദ്യുതധാരകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചോ അവ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് ഒരു അറിവ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് j ബൌണ്ട് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അത് മാഗ്നറ്റിക് മൊമെന്റ്ൻറെ കേളും ഉപരിതല വൈദ്യുതധാര മൈനസ് n ക്രോസ് M നും തുല്യമായിരുന്നു വൈദ്യുതധാരയുടെ ഒരു ചെറിയ ലൂപ്പ് ഒരു ഡൈപോളിന് തുല്യമാണെന്നതും ഓർക്കുക എനിക്ക് ഇതിനെ തിരിച്ച് ഒരു ഡൈപോൾ കറന്റ് വഹിക്കുന്ന ലൂപ്പിന് തുല്യമാണെന്ന് പറയാൻ കഴിയും ചില മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള ഒരു വസ്തു ഉള്ള ഒരു സാഹചര്യം നോക്കുക മുകളിലേക്ക് പോകുന്ന ദിശയിൽ ഒരു ഏകീകൃത മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചെറിയ ഭാഗത്തിന് മുകളിലേക്ക് പോകുന്ന ദിശയിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് ഇപ്പോൾ ഇരുണ്ടതാക്കാൻ പോകുന്ന ഈ പ്രതലങ്ങളിൽ അത് എതിർ ഘടികാരദിശയിൽ പ്രവഹിക്കുന്ന കറൻറിന് തുല്യമാണ് അതിനാൽ ഈ വശങ്ങളിലുള്ള പ്രതലങ്ങളിലൂടെ ഒരു കറന്റ് പോകുന്നു ഇതിനു മുഴുവനായി ഒരു ഏകീകൃത മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രതലങ്ങളിൽ ഉള്ള എല്ലാ വൈദ്യുതധാരകൾക്കും സംഭവിക്കാൻ പോകുന്നതെന്താണെന്നാൽ ഇവിടെ അടുത്തുള്ള ബ്ലോക്ക് ശ്രദ്ധിക്കുക പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന പ്രവാഹം താഴേക്ക് പോകുന്നു ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന പ്രവാഹം മുകളിലേക്ക് പോകുന്നു M യൂണിഫോം ആയതിനാൽ അവ ഒഴിവാക്കാൻ പോകുന്നു അതിനാൽ കറന്റ് ഒഴിവാക്കാതെ അവശേഷിക്കുന്ന സ്ഥലങ്ങൾ ഉപരിതലത്തിലായിരിക്കും അതായത് ഈ ബ്ലോക്കിന്റെ പുറത്തുള്ള പ്രതലങ്ങൾ ഈ വൈദ്യുതധാരകളുടെ അളവ് എന്തായിരിക്കും ഇത് മൈനസ് ചിഹ്നത്തോടുകൂടിയ n ക്രോസ് M ആയിരിക്കും അതിനാൽ പുറത്ത് എനിക്ക് അവശേഷിക്കുന്നത് n ക്രോസ് M ആണ് അതാണ് നമ്മൾ സംസാരിക്കുന്ന ഉപരിതല പ്രവാഹം k മറുവശത്ത് M ഈ അവസരത്തിൽ ഇവിടെ കാണിക്കുന്ന ചുവന്ന പോയിന്റിലാണെങ്കിൽ ഇവിടെയുള്ള പച്ചനിറത്തിലുള്ള പോയിന്റ് അല്പം വ്യത്യസ്തമായിരുന്നു പിന്നെ ഞാൻ വലതു വശത്തേക്ക് നീങ്ങുമ്പോൾ ഇത് X ദിശയാണെന്ന് നമുക്ക് പറയാം ലംബ ഘടകം അതായത് M ന്റെ Y ഘടകം മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ അതിനിടയിലെ വൈദ്യുതധാരകൾ മാറാൻ പോകുന്നില്ല വൈദ്യുതധാരകൾ മാറുന്നില്ലെങ്കിൽ അതായത് M വ്യത്യാസപ്പെടുന്നുവെങ്കിൽ വൈദ്യുത പ്രവാഹങ്ങളും ഈ പ്രതലങ്ങളും മാറുകയില്ല അവ ബൾക്ക് കറന്റിലേക്ക് ചേരുന്നു ഇവിടെ M y X നെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് M ന്റെ കേളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് ബൾക്ക് കറന്റ് നൽകുന്നത് അതിനാൽ ഇത് ബന്ധിത ബൾക്ക് കറന്റ് ബന്ധിത ഉപരിതല വൈദ്യുതധാര എന്നിവയുടെ ഭൌതിക വ്യാഖ്യാനമാണ് ഇതുവരെ നമുക്കുണ്ടായിരുന്ന വ്യാഖ്യാനത്തിന് സമാനമായി ഇത് ഒരു ധ്രുവീകരണത്തിൽ നിന്ന് പുറത്തുവരുന്ന ബദ്ധചോദനകൾ ബന്ധിത ബൾക്ക് ചാർജുകൾ ബന്ധിത ഉപരിതല ചാർജുകൾ എന്നിവയ്ക്ക് സമാനമാണ്